ഉദാഹരണത്തിന് ഇതാണ് V12 പിന്നെ V21 യഥാർത്ഥത്തിൽ ഇതാണ് പോയിന്റ് 1 ഇത് 1 ആമ്പ് ആണ് ഇതാണ് പോയിന്റ് 2 ഇത് പിന്നെ ഇത് ഇതാണ് വോൾടേജ് V12 ഈ V12 എന്നത് 10 വോൾട് ആണെങ്കിൽ ഇത് അതിനാൽ V21 എന്നത് 10 വോൾട് ആയിരിക്കും ഇത് V12 ആക്കിയാൽ ഇത് പിന്നെ ഇത് അപ്പോൾ V12 എന്നത് 10 വോൾട് ആണെന്ന് മനസ്സിലാക്കാമല്ലോ സൈസുകൾ ആണ് റഫറൻസ് ദിശയെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞത് പോലെ V12 എന്നത് പോയിന്റ് 2 വച്ച് നോക്കുമ്പോൾ ഉള്ള പോയിന്റ് 1 ന്റെ വോൾടേജ് ആണ് അപ്പോൾ സ്വാഭാവികമായും V12 എന്നത് 10 വോൾട് ആണെങ്കിൽ V21 എന്നത് 10 വോൾട് ആയിരിക്കും ഇതിന്റെ വിശദീകരണത്തിനായി ഫിഗർ 1 7 നോക്കുക ഇത് അതേ വോൾടേജ് തന്നെ ആണ് ഉദാഹരണത്തിന് ഇതാണ് പോയിന്റ് 1 പിന്നെ ഇതാണ് പോയിന്റ് 2 പിന്നെ ഇതാണ് ലാമ്പ് ഇത് 10 വോൾട് ആണ് അതായതു പോയിന്റ് 1 എന്നത് പോയിന്റ് 2 നെ സംബന്ധിച്ച് 10 വോൾട് ഉയർന്നതാണ് ഇനി ഈ പൊളാരിറ്റി മാറുകയാണെങ്കിൽ ഇനി ഇത് പിന്നെ ഇത് എന്നിങ്ങനെയാകുയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പോയിന്റ് 2 എന്നത് 10 വോൾട് പോയിന്റ് 1 സംബന്ധിച്ചു ഉയർന്നതാണ് ഇത് പോലുള്ള സാഹചര്യങ്ങളിൽ പോയിന്റ് റഫറൻസ് ആയി എടുക്കുക അതിന്റെ അർഥം പോയിന്റ് 1 അഥവാ ടെർമിനൽ പോയിന്റ് 2 നെ സംബന്ധിച്ചു 10 വോൾട് ഉയർന്നതാണ് ഇവിടെ ഇത് 2 ആണ് പിന്നെ ഇവിടെ ഇത് 1 പക്ഷെ 10 വോൾട് അതായതു പോയിന്റ് 2 എന്നത് പോയിന്റ് 1 നെ സംബന്ധിച്ച് 10 വോൾട് ഉയർന്നതാണ് ഇത് മനസ്സിലാക്കാനാകുന്നതാണ് ഞാൻ ഈ ടെർമിനൽ റഫറൻസ് ആയി എടുക്കുന്നു ഇത് അതെ അർത്ഥത്തിൽ എടുക്കുന്നു ഈ പോയിന്റ് 2 എന്നത് 10 വോൾട് ഉയർന്നതാണ് അപ്പോൾ പോയിന്റ് 1 എന്നത് പോയിന്റ് 2 വച്ച് നോക്കിയാൽ 10 വോൾട് ഉയർന്നതാണ് ഈ രണ്ടു പ്രതിനിധീകരണങ്ങളും ഒന്ന് തന്നെയാണ് ഇതാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പൊതുവെ പറഞ്ഞാൽ ഇത് പോയിന്റ് 1 ൽ നിന്നും 2 ലേക്കുള്ള വോൾടേജ് ഡ്രോപ്പ് ആണ് എന്നാൽ പോയിന്റ് 2 ൽ നിന്നും 1 ലേക്ക് വോൾടേജ് റൈസ് ആണ് ഇനി പവർ പിന്നെ എനർജി P യും എനർജിയും കണക്കു കൂട്ടുക എന്നത് വളരെ പ്രധാനമാണ് എന്തെന്നാൽ കറന്റും വോൾടേജ് ഉം മാത്രമായി എല്ലാ കാര്യങ്ങളും പരിഹരിക്കില്ല എന്തെന്നാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്നത് p അകാൻ സാധ്യത ഉണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട ബൾബ് ട്യൂബ് ലൈറ്റ് എന്നിവയുടെയെല്ലാം p ആണ് പ്രതിനിധീകരിക്കുക ഈ വോൾടേജ് കറന്റ് എന്നിവ ഉപയോഗപ്രദമായ വേരിയബിൾ തന്നെ ആണ് എന്നാൽ മാത്രമായി പര്യാപ്തമല്ല എന്തെന്നാൽ നമുക്ക് ഉപയോഗപ്രദമായ ഔട്ട്പുട്ട് മിക്കവാറും ഇലെക്ട്രിക്കൽ തന്നെ ആകണമെന്നില്ല അതിനാൽ ഈ ഔട്ട്പുട്ട് p അല്ലെങ്കിൽ എനർജി യുടെ രൂപത്തിൽ ആയിരിക്കും പറയുക മറ്റൊരു കാര്യം നാം എലെക്ട്രിക്കൽ എലമെന്റ് ന്റെ ഔട്ട്പുട്ട് p അല്ലെങ്കിൽ എനർജി ആയി എടുക്കുകയാണേൽ അത് എപ്പോഴും നിജമായിരിക്കും അത് ചിലപ്പോൾ 40 വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട് എന്നിങ്ങനെ ഇനി അടുത്ത കാരണം എന്നത് എല്ലാ പ്രായോഗിക ഉപകരണങ്ങൾക്കും p യുടെ കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്തെന്നാൽ അവയ്ക്ക് ചെയ്യാനാകുന്ന ഉപകരണങ്ങളിലും ചില സവിശേഷതകൾ ഉണ്ട് അത് ബൾബ് ആകാം ലൈറ്റ് ആകാം അല്ലെങ്കിൽ ഫാൻ ആകാം മറ്റൊരു പ്രധാന സവിശേഷത എന്നത് ഇവയുടെ p എന്നതാണ് നമ്മുടെ എല്ലാം അനുഭവങ്ങളിൽ നിന്നും നമുക്കറിയാം 60 വാട്ട് ബൾബ് നു 40 വാട്ട് ബൾബിനെക്കാൾ വെളിച്ചം കൂടുതൽ ആണ് എന്തെന്നാൽ 60 വാട്ട് ബൾബിനു 40 വാട്ട് ബൾബിനെക്കാൾ പവർ കൂടുതൽ ആണ് പിന്നെ നമ്മുടെ ഇലെക്ട്രിസിറ്റി ബില്ല് കണക്കാക്കുന്നത് നിശ്ചിത പവർ ഉള്ള ഒരു ഉപകരണം എത്ര നേരം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് വാട്ട് അവർ എന്ന യൂണിറ്റ് ൽ ആണ് പ്രതിപാദിക്കുക പൊതുവെ പറഞ്ഞാൽ ഈ യൂണിറ്റ് അഥവാ കിലോ വാട്ട് അവർ ഉയർന്നതാണ് ചിലപ്പോൾ നമുക്ക് പറയാനാകും ഈ എനർജി എന്നത് പവർ നെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്നാൽ ഇത് വാട്ട് അവർ അഥവാ വാട്ട് അവർ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത് ഈ എനർജി അല്ലെങ്കിൽ p യെ വോൾടേജ് പിന്നെ കറന്റ് എന്നിവയുമായി എങ്ങനെ ബന്ധിപ്പിക്കും എന്നതാണ് P എന്നത് സമയത്തിനനുസരിച്ചു കൂടുകയും കുറയുകയും ചെയ്യുന്ന എനെർജിയുടെ അളവാണ് അതിനാൽ p എന്നത് വാട്ട് ൽ ആണ് അളക്കുന്നത് ഗണിതപരമായി p dw dt ഇതിനെയാണ് എനർജി മാറ്റത്തിന്റെ ടൈം റേറ്റ് എന്ന് പറയുന്നത് അതിനാൽ ഇത് pdwdt ഇതിൽ p എന്നത് പവർ ആണ് അത് വാട്ട് ൽ ആണ് പ്രതിപാദിക്കുക W എന്നത് എനർജി ആണ് അത് ജൂൾ ൽ പിന്നെ t എന്നത് ടൈം അത് സെക്കന്റ് ൽ ആണ് പറയുക 1 വാട്ട് 1 ജൂൾ പേർ സെക്കന്റ് ആണ് ഒരിക്കൽ കൂടി പറയാം P എന്നത് അളക്കുന്നത് വാട്ട്സ് ൽ ആണ് ഗണിതപരമായി ഈ p എന്നത് dw ബൈ dt ആണ് പിന്നെ ഫിസിക്സ് ൽ ഡെഫിനിഷൻ എന്നത് എനർജി മാറ്റത്തിന്റെ ടൈം റേറ്റ് ആണ് ഇതിനെ ലളിതമായി എനർജി യുടെ ടൈം റേറ്റ് എന്ന് പറയരുത് അത് തെറ്റാണു എനർജി മാറ്റത്തിന്റെ ടൈം റേറ്റ് എന്ന് പറയുക അതിനാൽ ഇക്വേഷൻ 1 1 ൽ നാം കണ്ടു Idqdt പിന്നെ ഈ 1 4 ഉം ഉപയോഗിച്ച് ഈ 1 6 നമുക്ക് മാറ്റി എഴുതാം അതായതു p dwdt എന്നത് dwdq dqdt എന്ന് നമുക്ക് മാറ്റിയെഴുതാം ഇതിൽ dwdq എന്നത് V ആണ് പിന്നെ dqdt എന്നത് I ആണെന്നും അറിയാം dwdq എന്നത് V എന്ന് നാം മനസ്സിലാക്കിയത് 1 4 ൽ നിന്നും ആണ് അതിനാൽ p vi എന്ന് പറയാം ഇത് യഥാർത്ഥത്തിൽ p ആണ് ഇത് ഞാൻ ഒരിക്കൽ കൂടി എഴുതാൻ പോകുന്നു ഈ dw dt യെ പാർഷ്യൽ ഡെറിവേറ്റീവ് ലെ ചെയിൻ റൂൾ ഉപയോഗിച്ച് പറയാൻ പോകുന്നു അത് dw dq dqdt തന്നെ ആണ് പിന്നെ dw dq v ആണ് പിന്നെ i dqdt അത് 1 1ൽ നിന്നും ലഭിച്ചു അതിനാൽ p വോൾടേജ് കറന്റ് ഇക്വേഷൻ 1 7 ൽ പറയുന്നതു അടിസ്ഥാന സർക്യൂട് ന്റെ p എന്താണ് എന്നതാണ് അത് കറന്റ് ന്റെയും വോൾടേജ് ന്റെയും ഗുണനം ആണ് അതിനാൽ പറയാം p എന്നത് ഒരു പെയർ ടെർമിനൽ കളുടെ കുറുകെയാണ് കണക്കാക്കുന്നത് എനർജി കൊടുക്കുകയാണോ അതോ സ്വീകരിക്കുകയാണോ എന്ന് നമ്മുടെ കണക്കു കൂട്ടലിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ആണ് P യുടെ സൈൻ ആണെങ്കിൽ എലമെന്റ് എനർജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ p യുടെ സൈൻ ആണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇനി p എന്നത് ആണെങ്കിൽ എലെമെന്റിൽ നിന്നും എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ p യുടെ സൈൻ എന്നത് എന്താണെന്നു എങ്ങനെ മനസ്സിലാക്കും വോൾടേജ് ന്റെ പൊളാരിറ്റി യും പിന്നെ കറന്റ് ഡയറക്ഷൻ എന്നിവ വളരെ പ്രധാനമാണ് ഇത് നോക്കുക ഇത് വളരെ ലളിതമായ സർക്യൂട് എലമെന്റ് ആണ് ഈ കറന്റ് എന്നത് സോറി ഈ ടെർമിനൽ എന്നത് ആണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഈ ദിശയിൽ ആണ് എപ്പോഴെല്ലാം കറന്റ് പോസിറ്റീവ് ടെർമിനൽ ൽ പ്രവേശിക്കുമോ അപ്പോൾ കറന്റ് പോസിറ്റീവ് ആയി കണക്കാക്കും ഇവിടെ കറന്റ് എന്നത് ടെർമിനൽ ലേക്കാണ് പ്രവേശിക്കുന്നത് അതിനാൽ pv ഇതിൽ p പോസിറ്റീവ് ആണ് അതിന്റെ അർഥം ഈ എലമെന്റ് പവർ സ്വീകരിക്കുകയാണ് അതിന്റെ അർഥം കറന്റ് ടെർമിനൽ ൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ടെര്മിനലിലേക്കോ ഒഴുകാം അതായതു ഈ ടെര്മിനലിലേക്കു പ്രവേശിക്കുകയാണ് ഇപ്പോൾ അല്ലതെ പുറത്തേക്കു പോകുകയല്ല അതിനാൽ p vi ഇനി കറന്റ് എന്നത് ടെർമിനൽ ന്റെ പുറത്തേക്കാണെങ്കിൽ നേരെ മറിച്ചാണ് ഇതിൽ എലെമെന്റിന്റെ ൽ നിന്നും കറന്റ് പുറത്തേക്കാണ് പോകുന്നത് അതിനാൽ കറന്റ് ടെർമിനൽ ലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്കും പോകാം അങ്ങനെ പുറത്തേക്കു പോകുമ്പോൾ കറന്റ് എന്നത് നെഗറ്റീവ് ദിശയിലാകും അപ്പോൾ p എന്നത് vi ആകും ഈ അവസരത്തിൽ ഈ എലമെന്റ് പവർ നൽകുകയാണ് ചെയ്യുക അതായതു p v i ആണ് ഒരു കേസിൽ ടെർമിനൽ ലേക്ക് പ്രവേശിക്കുന്നു അടുത്ത കേസിൽ അതിൽ നിന്നും പുറത്തേക്കു പോകുന്നു ടെർമിനൽ ലേക്ക് പ്രവേശിക്കുമ്പോൾ സൈൻ ആകുന്നു എന്നാൽ പുറത്തേക്കു പോകുമ്പോൾ അത് ആകുന്നു ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് P യുടെ റഫറൻസ് പൊളാരിറ്റി എന്നത് പാസ്സീവ് സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുക അപ്പോൾ p ക്കു പോസിറ്റീവ് സൈൻ വരിക കറന്റ് ഡയറൿഷൻ അനുസരിച്ചാണ് അല്ലാതെ റേറ്റ് അനുസരിച്ചല്ല കറന്റ് ന്റെ ദിശയും വോൾടേജ് ന്റെ പൊളാരിറ്റി യും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് 8 ൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ പാസ്സീവ് സൈൻ കൺവെൻഷൻ എന്തൊക്കെ പറഞ്ഞോ കറന്റ് പ്രവേശിക്കുന്നത് വോൾടേജ് ന്റെ ഈ പോസിറ്റീവ് ടെർമിനൽ ൽ ആണെങ്കിൽ p vi എന്തെന്നാൽ കറന്റ് പ്രവേശിക്കുന്നത് ഈ പോസിറ്റീവ് ടെർമിനൽ വഴി ആണ് അപ്പോൾ കറന്റ് ന്റെ സൈൻ എന്നത് ആയി വേണം എടുക്കാൻ അതിനാലാണ് pvi ആകുന്നത് പിന്നെ ഈ കേസിൽ കറന്റ് ടെർമിനൽ ൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് അതിനാൽ p vi അതിനാൽ പാസ്സീവ് സൈൻ കൺവെൻഷൻ അനുസരിച്ചു കറന്റ് വോൾടേജ് ന്റെ പോസിറ്റീവ് ടെർമിനൽ ൽ പ്രവേശിക്കുമ്പോൾ pvi ആകുന്നു അതിന്റെ അർഥം vi0 അപ്പോൾ vi0 എന്നത് അർത്ഥമാക്കുന്നത് എലമെന്റ് p സ്വീകരിക്കുകയാണ് പിന്നെ p vi ആകുമ്പോൾ ഈ എലമെന്റ് ഈ ഫിഗർ b യിൽ കാണിച്ചിരിക്കുന്നത് പോലെ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോഴ്സിൽ ഉടനീളം നാം പാസ്സീവ് സൈൻ കൺവെൻഷൻ ആയിരിക്കും പിന്തുടരുക ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു എന്തെന്നാൽ ഇനിയുള്ള സ്റ്റേജ് ൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നത് മറ്റൊരു കാര്യം ആണ് എന്തെന്നാൽ അടിസ്ഥാന പരമായ കാര്യങ്ങൾ വ്യക്തമായിരിക്കണം അതായതു എപ്പോൾ കറൻറ് പോസിറ്റീവ് ടെർമിനൽ ലേക്ക് പ്രവേശിക്കുമോ അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും ഇനി കറന്റ് പുറത്തേക്കു പോകുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കണ ഇനി p പോസിറ്റീവ് ആകുമ്പോൾ പവർ സ്വീകരിക്കുന്നു പിന്നെ അത് നെഗറ്റീവ് ആകുമ്പോൾ പവർ പുറത്തേക്കു കൊടുക്കുന്നു ഇങ്ങനെ പാസ്സീവ് സൈൻ കൺവെൻഷൻ എന്നത് സാധിച്ചിരിക്കുന്നു കറൻറ് പോസിറ്റീവ് ടെർമിനൽ ലൂടെ പ്രവേശിക്കുമ്പോൾ p vi ഇനി കറന്റ് നെഗറ്റീവ് ടെർമിനൽ ലൂടെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ p vi ഇതിന്റെ അർഥം ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാകും അതായതു കറന്റ് പോസിറ്റീവ് ടെർമിനൽ ലൂടെ പ്രവേശിക്കുമ്പോൾ p vi ഇനി കറന്റ് നെഗറ്റീവ് ടെർമിനൽ ലൂടെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ p vi വേറെ രീതിക്കു പറഞ്ഞാൽ കറന്റ് പോസിറ്റീവ് ടെർമിനൽ ലൂടെ പ്രവേശിക്കുന്നു പിന്നെ നെഗറ്റീവ് ടെർമിനൽ ലൂടെ പുറത്തേക്കു പോകുന്നു ഇപ്പോൾ ഈ കറന്റ് പോസിറ്റീവ് ടെർമിനൽ ലൂടെ യാണ് പ്രവേശിക്കുന്നത് അതിനാൽ ഇത് vi ആണ് ഇനി നെഗറ്റീവ് ടെർമിനൽ ലൂടെ യാണ് പ്രവേശിക്കുന്നതെങ്കിൽ അത് vi ആണ് പോസിറ്റീവ് ആണെങ്കിൽ പവർ സ്വീകരിക്കുന്നു പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ പവർ പുറത്തേക്കു വിടുന്നു ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് പൊതുവെ പറയാം p അബ്സോർബ്ഡ് p സപ്പ്ളൈഡ് ഈ കോൺസെപ്റ് I12 I21 അല്ലെങ്കിൽ V12 V21 എന്നതിന് സമാനമാണ് അതുപോലെ തന്നെ നമുക്ക് പറയാം p അബ്സോർബ്ഡ് p സപ്പ്ളൈഡ് എന്തെന്നാൽ എനെര്ജിയുടെ ബാലൻസ് എന്നത് സാധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ ഫിഗർ നോക്കുക ഇവിടെ ഈ രണ്ടു കേസുകളും കാണിച്ചിരിക്കുന്നു ഇനി ഇവിടെ ഈ p പ്രവേശിക്കുന്നത് നോക്കിയാൽ സോറി ഈ കറന്റ് പ്രവേശിക്കുന്നത് നോക്കിയാൽ ഈ പോസിറ്റീവ് ടെർമിനൽ ഇത് 5 വോൾട് ആണ് അപ്പോൾ p എന്തായിരിക്കും അതായത് V 5 വോൾട് പിന്നെ I 4 ആംപിയർ അയാൽ അപ്പോൾ p എന്നത് 5 4 അതായതു 20 വാട്ട് ആയിരിക്കും എന്തെന്നാൽ കറന്റ് പോസിറ്റീവ് ടെർമിനൽ ലാണ് പ്രവേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് ആക്കി ഒപ്പം ഇത് ഇപ്പോൾ കറന്റ് പ്രവേശിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ൽ ആണ് ഇവിടെ നോക്കിയാലും കറന്റ് പ്രവേശിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ൽ ആണ് എന്തെന്നാൽ കറന്റ് ഇങ്ങനെയാണ് പോകുന്നത് അതിനാൽ ഈ കേസിൽ ഇവിടെ i 4 അമ്പിയർ ആണ് അതിനാലാണ് കറന്റ് ഇങ്ങനെ യാണ് പോകുന്നത് എന്ന് പറയാൻ കാരണം അവസാനം ഈ രണ്ടു കേസിലും കറന്റ് പ്രവേശിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ലൂടെ എന്ന് പറയാം ഇവിടെ ഇത് 1 2 പിന്നെ ഇവിടെയും 1 2 പക്ഷെ ഇത് പിന്നെ ഇത് ഈ കേസിലും p 5 4 ആണ് അതിന്റെ അർഥം 20 വാട്ട് ഈ രണ്ടു കേസിലും പവർ എന്നത് സ്വീകരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടു സർക്യൂട് ലും പവർ എന്നത് അബ്സോർബ് ചെയ്യുകയാണ് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ രണ്ടു സർക്യൂട് ലും p 20 വാട്ട് ആണ് അതായതു 5 4 ഇവിടെയും കറന്റ് പോസിറ്റീവ് ടെർമിനൽ ലൂടെയാണ് പ്രവേശിക്കുക ഇനി അല്പം മനസ്സിലാക്കാനുണ്ട് അതിനാൽ ഇനിയുള്ള സ്റ്റേജുകളിൽ കാര്യങ്ങൾ എളുപ്പമാകും ഇനി ഈ രണ്ടു കേസുകളും നോക്കുക ഇവിടെ എലെമെന്റുകൾ പവർ കൊടുക്കുകയാണ് ഈ കേസിൽ കറന്റ് നെഗറ്റീവ് ടെർമിനൽ ൽ ആണ് പ്രവേശിക്കുക ഞാൻ ഈ കറന്റ് എന്നത് 4 ആമ്പിയർ ആക്കി മാറ്റുന്നു അതിനാൽ കറന്റ് ഇങ്ങനെ ആണ് പോകുക ഇതാണ് ആ ദിശ അതിനാൽ കറന്റ് നെഗറ്റിവ് ടെർമിനൽ കൂടെ ആണ് പ്രവേശിക്കുക അതിനാൽ I എന്നത് നെഗറ്റീവ് ആയിരിക്കണം അതിനാൽ p 4 5 അത് 20 വാട്ട് ആണ് അതിന്റെ അർഥം ഈ എലമെന്റ് എന്നത് പവർ സപ്ലൈ ചെയ്യുകയാണ് അതുപോലെ ഇവിടെയും കറന്റ് നെഗറ്റീവ് ടെർമിനൽ ൽ ആണ് പ്രവേശിക്കുക ഇവിടെയും ഇത് ആണ് അതിനാൽ ഇത് 4 5 ആണ് അതായതു 20 വാട്ട് അതിന്റെ അർഥം ഈ എലമെന്റ് പവർ സപ്ലൈ ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ 20 വാട്ട് ആണ് ഏതു ഇലെക്ട്രിക്കൽ സർക്യൂട് ൽ ആണെങ്കിലും ഊർജ സംരക്ഷണ നിയമം അനുസരിക്കണം അതിനാൽ ഏത് സമയത്താണെങ്കിലും ഇത് വായിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ നിയമം അനുസരിക്കണം അതായതു ഒരു സർക്യൂട് ൽ p യുടെ അകെ തുക ഒരു സമയം 0 ആയിരിക്കണം ഇത് പൊതുവായി സിഗ്മ p 0 അല്ലെങ്കിൽ p 0 എന്ന് എഴുതാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സർക്യൂട് ൽ ഒന്നിൽ അധികം വോൾടേജ് സോഴ്സ് ഉണ്ടാകാം അതോടൊപ്പം ഇലെക്ട്രിക്കൽ എലമെന്റ് കളും ചില കേസുകളിൽ p എന്നത് കൊടുക്കുന്നു ചില കേസുകളിൽ p എന്നത് സ്വീകരിക്കുന്നു അതിനാൽ അകെ പവർ എന്നത് ഡെലിവെർഡ് സപ്പ്ളൈഡ് എന്നിവ കൂട്ടുന്നതാണ് അത് 0 ആയിരിക്കും അതിനാൽ p 0 ആയിരിക്കും ഈ കേസിൽ അതായതു എല്ലാ പൌറുകളുടെയും തുക എന്നത് 0 പിന്നെ അകെ പവർ സ്വീകരിച്ചത് അകെ പവർ കൊടുത്തതിനു തുല്യമായിരിക്കും അത് നാം പിന്നീട് നോക്കുന്നതാണ് അതിനാൽ അകെ തുക 0 ആണ് ഇതാണ് ഇക്വേഷൻ 1 8 ൽ പറയുന്നത് ഇതിൽ പറയുന്ന കാര്യം അകെ പവർ സപ്പ്ളൈഡ് എന്നത് അകെ പവർ ഡെലിവെർഡ് നു തുല്യമാണ് ഇതിൽ നിന്നുമാണ് സിഗ്മ p 0 എന്നത് ഉണ്ടായതു ഇത് നാം പിന്നീട നോക്കുന്നതാണ് ഇനി എനർജി w കണക്കു കൂട്ടുക നമുക്കറിയാം p dw ബൈ dt ആണ് ഇതിൽ നിന്നും w കണക്കു കൂട്ടാൻ p യെ ടൈം വച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക അതിനാൽ dw എന്നത് pdt ആയിരിക്കും അപ്പോൾ w എന്നത് t 0 മുതൽ 2 വരെ pdt ആയിരിക്കും എന്നാൽ p vi ആണ് അത് കൊടുക്കുക അപ്പോൾ ഈ എനർജി കിട്ടും ഇനി എനർജി വന്നത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അതിനാൽ എനെർജിയും ജൂൾ ൽ ആണ് പറയുക അപ്പോൾ w പറയുന്നതും ജൂൾ ൽ ആണ് അപ്പോൾ ഇലക്ട്രിക്ക് ആയ എനർജി അളക്കുന്നത് വാട്ട് അവർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ ൽ ആണ് 1 വാട്ട് അവർ 3600 ജൂൾ അടുത്ത എക്സാമ്പിൾ നോക്കുന്നതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പറഞ്ഞത് വോൾടേജ് കറന്റ് പിന്നെ പവർ എന്നിവയുടെ അടിസ്ഥാന കോൺസെപ്റ് ആണ് പിന്നെ നോക്കിയത് പാസ്സീവ് സൈൻ കൺവെൻഷൻ ആണ് അത് വച്ച് പവർ സ്വീകരിച്ചതും കൊടുത്തതും എങ്ങനെ എന്നും മനസ്സിലാക്കി അത് പോലെ വോൾടേജ് ൽ ഏതു പോയിന്റ് ആണ് ഉയർന്നത് എന്നും മനസ്സിലാക്കി അത് 1 ആണ് ഇതെല്ലാം തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ 1 വാട്ട് അവർ 3600 ജൂൾ ആണ് ഇനി ഒരു ഉദാഹരണം നോക്കാം അത് 5524 എലെക്ട്രോണുകളിൽ എത്ര ചാർജ് ഉണ്ട് എന്നതാണ് നമുക്കറിയാം ഓരോ എലെക്ട്രോണിന്റെയും ചാർജ് എന്നത് e 1 602 10 ന്റെ പവർ 19 കുളം ആണ് അപ്പോൾ ഇതിനെ 5542 വച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും എന്തെന്നാൽ ഓരോ എലെക്ട്രോണ് നുള്ള ചാർജ് എന്നത് 1 602 10 ന്റെ പവർ 19 കുളം ആണ് അപ്പോൾ അകെ ചാർജ് എന്നത് 5542 എലെക്ട്രോണുകളുടെ ആണ് അത് 8 849 10 ന്റെ പവർ 16 കുളം ആണ് ഇവിടെ സ്കെലിങ് ചെയ്യാനായി അൽപ്പം കട്ട് ചെയ്തിരിക്കുന്നു ഇത് ശരിക്കും കുളം ആണ് ഇനി ഉദാഹരണം 2 ആണ് ഒരു ടെർമിനലിൽ പ്രവേശിക്കുന്ന അകെ ചാർജ് എന്നത് ഇത് യഥാർത്ഥത്തിൽ പേജ് നമ്പർ 17 ആണ് അത് q 3tsin 2t മില്ലി കുളം ആണ് അപ്പോൾ ടൈം t 0 4 സെക്കന്റ് ആകുമ്പോൾ ഉള്ള കറന്റ് കണ്ടു പിടിക്കുക ഇത് വളറെ ലളിതമാണ് നമുക്കറിയാം idqdt ആണ് അത് കൊണ്ട് ddt ഓഫ് 3 t sin 2ϕt ഇത് 2πt ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ i 3 sin 2 pi t 6 pi t cos 2π t അത് മില്ലി അമ്പിയർ ആണ് എന്തെന്നാൽ ഇത് തന്നിരിക്കുന്നത് മില്ലി കുളം ആണ് അതിനാൽ ആണ് ഇത് മില്ലി അമ്പിയർ ൽ എഴുതിയിരിക്കുന്നത് 3 സെക്കന്റ് ആകുമ്പോൾ i 3 sin 2π0 3 6 pi 0 3മില്ലി അമ്പിയർ ആണ് ഇത് കണക്കു കൂട്ടിയാൽ എനിക്ക് i 1 106 എന്ന് കിട്ടും അത് t 0 4 സെക്കന്റ് ൽ ആണ് നോക്കുക ഇവിടെ ശരിക്കും 0 3 സെക്കന്റ് ആയിരിക്കണം എന്തെന്നാൽ ഞാൻ ഇവിടെ എടുത്തത് t 0 3 ആണ് പക്ഷെ ഇവിടെ എഴുതിയത് 0 അത് 0 3 ആക്കുക ഇവിടെ സംശയം ഒന്നും ഉണ്ടാകരുത് ഈ സ്ക്രീനിൽ നോക്കുക ഇവിടെ ഒരു തിരുത്തൽ സാധിക്കില്ല അതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ t 0 3 ആണ് അതിനാൽ കൺഫ്യൂഷൻ പാടില്ല അതിനാലാണ് ഞാൻ ഇവിടെ t 0 3 ആക്കിയത് ഇനി വേണ്ടത് അകെ ചാർജ് ആണ് ഇനി t എന്നത് 2 ന്റെയും 4 ന്റെയും ഇടയിലുള്ള അകെ ചാർജ് അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്നത് i 2 t2 t ആമ്പിയർ ആണ് ഇത് തന്നിരിക്കുന്നു അതായതു സമയ പരിധി എന്നത് 2 t അതായതു 2 സെക്കന്റ് മുതൽ 4 സെക്കന്റ് വരെ ഇനി ഇക്വേഷൻ 1 2 നോക്കിയാൽ അറിയാം അത് i dq dt ആണ് അതിനാൽ dqidt ആണ് അപ്പോൾ q എന്നതി ഇന്റഗ്രൽ ydt അപ്പോൾ സമയ പരിധി എന്നത് t 2 സെക്കന്റ് മുതൽ t 4 സെക്കന്റ് വരെയാണ് അപ്പോൾ അത് 2 റ്റു 4 2 t 2 t dt ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അത് 2 ബൈ 3 t 3 t 2 ബൈ 2 ആണ് ലിമിറ്റ് എന്നത് 2 മുതൽ 4 വരെ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് q 31 33 കുളം എന്ന് ലഭിക്കും ഇനി ഉദാഹരണം 1 ഇത് ഒരു സർക്യൂട് എലമെന്റ് ന്റെ ചാർജ് vs ടൈം എന്നത് qt 0 ആണ് ടൈം 0 യിൽ താഴെ ആകുമ്പോൾ ഇനി ടൈം 0 യുടെ മുകളിൽ ആണെങ്കിൽ qt 2 2 100t ഇനി നമുക്ക് qt എന്നത് ടൈം നു എതിരെ പ്ലോട്ട് ചെയ്യണം Qt എന്നത് തന്നിട്ടുണ്ട് ഇനി അത് പ്ലോട്ട് ചെയ്താൽ മാത്രം മതി അതിന്റെ ഉത്തരം അറിയാം അത് it dqdt ആണ് T 0 നു താഴെ ആകുമ്പോൾ qt 0 എന്നത് തന്നിട്ടുണ്ട് ഡെറിവേറ്റീവ് എടുത്താലും അത് t 0 തന്നെ ആണ് നാം എപ്പോൾ t 0 എടുത്താലും അത് പഴയ ചരിത്രം പോലെയാണ് എന്ന് പറയാം ഇനി ട്രാൻസിയൻറ്സ് പഠിക്കുമ്പോൾ അത് വ്യക്തമാകുന്നതാണ് അതിനാലാണ് അത് ഗണിതപരമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ അത് qt 0 ആണ് അപ്പോൾ t 0 ക്കു താഴെ എങ്കിൽ ഇത് 0 ഇനി qt എന്നത് 2 ആണേൽ 2 e യുടെ പവർ 100 t ഇതിന്റെ ഡെറിവേറ്റീവ് dqtdt എടുക്കുക അപ്പോൾ അത് 200 e യുടെ പവർ 100 t ആണ് ഇനി ഈ qt യുടെയും it യുടെയും പ്ലോട്ട് ഫിഗർ 2 ൽ കൊടുത്തിരിക്കുന്നു അത് നേരത്തെ തന്നിട്ടുള്ളതാണ് ഇതിൽ t യുടെ വാല്യൂ കൊടുക്കുക നാം t 0 കൊടുത്താൽ അത് e യുടെ പവർ 0 ആകും അത് 1 ആണ് അതുകൊണ്ട് 2 2 0 ആകും ഈ ഗ്രാഫ് തുടങ്ങുതാണ് 0 യിൽ നിന്നാണ് പിന്നെ t കൂടുന്നത് മില്ലി സെക്കന്റ് ൽ ആണ് ഇങ്ങനെ t കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം പോയിന്റ് 2 ൽ സ്ഥിര വാല്യൂ ലേക്ക് എത്തുന്നു ഇവിടെ t കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇൻഫിനിറ്റി ലേക്ക് പോകുന്നു അതായതു ഈ ടെം ഇല്ലാതാകുന്നു ഇനി 2 മാത്രമേ കാണൂ അതുകൊണ്ടാണ് അത് റെഫർ ചെയ്യുക qt എന്നത് 2 ലേക്ക് അടുക്കുന്നത് പിന്നെ ഇതാണ് കറന്റ് അത് t 0 ആകുമ്പോൾ 200 അമ്പിയർ ആകുന്നു എന്തെന്നാൽ t 0 ആകുമ്പോൾ ഇത് 1 ആണ് അതിനാൽ ഇത് 200 ൽ നിന്നുമാണ് തുടങ്ങുന്നത് ഇനി t കൂടുകയാണെങ്കിൽ കറന്റ് കുറഞ്ഞു വരുന്നു അത് 0 ലേക്ക് അടുക്കുന്നു ഇനി t ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ആയി മാറുന്നു അതിനാൽ സ്ഥിരമായ കറന്റ് എന്നത് 0 ആണ് ഈ പ്ലോട്ട് ആണ് it vs ടൈം പിന്നെ ഇത് qt vs ടൈം ഇത് ചാർജ് ന്റെ പ്ലോട്ട് പിന്നെ ഇത് കറന്റ് ന്റെ പ്ലോട്ട് മറ്റൊരു ഉദാഹരണം അത് 1 ഒരു എലെമെന്റിൽ കൂടെ ഒഴുകുന്ന കറന്റ് എന്നത് 1 അമ്പിയർ t എന്നത് 0 നു മുകളിൽ ആകുമ്പോൾ അതോടൊപ്പം t എന്നത് 1ൽ താഴെയും ആകണം രണ്ടാമത്തെ കാര്യം അത് 3 t 2 ആണ് t എന്നത് 1 നു മുകളിൽ ആകുമ്പോൾ ഇനി t എന്നത് 0 ക്കും 1 നും ഇടയിൽ ആകുമ്പോൾ കറന്റ് എന്നത് 1 അമ്പിയർ ആണ് അതായതു കറന്റ് സ്ഥിരം ആണ് ഇനി 1 നു മുകളിൽ അയാൽ അത് 3 t 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് t എന്നത് 0 ക്കും 2 നും ഇടയിൽ ആയാൽ ഉണ്ടാകുന്ന ചാർജ് എത്രയാണ് എന്നതാണ് അതിനാൽ t എന്നത് 0 ക്കും 2 നും ഇടയിൽ ആയാൽ ഉണ്ടാകുന്ന ചാർജ് കണ്ടു പിടിക്കുക മനസ്സിലാക്കുക q എന്നത് t 0 റ്റു idt ആണ് അത് 0 മുതൽ 1 വരെ പിന്നെ 1 മുതൽ 2 വരെ രണ്ടു ഇടവേളകൾ ആയാണ് ഇത് t 0 പിന്നെ ഇത് t 1 അത് 1 സെക്കന്റ് ആണ് അതായതു 0 മുതൽ 1 വരെ ഇനി t 1 റ്റു t സെക്കന്റ് ഇവിടെ t 1 എന്നത് 1 സെക്കന്റ് പിന്നെ t എന്നത് 2 സെക്കന്റ് അത് 1 മുതൽ 2 വരെ ആണ് നാം മനസ്സിലാക്കേണ്ടത് 0 മുതൽ t വരെ 2 ഇന്റർവെൽ ആണുള്ളത് ഒന്ന് 0 മുതൽ 1 വരെ അടുത്ത് 1 നു മുകളിൽ അതിൽ 0 മുതൽ 2 വരെയാണ് നമുക്ക് വേണ്ടത് ഇനി 0 മുതൽ 1 വരെ അഥവാ t0 0 t 1 1 ഇതാണ് ഇനി 1 മുതൽ 2 വരെ അതായതു t 1 1 പിന്നെ t 2 ഇവിടെ idt എന്താണ് ഇതാണ് idt ഇത് ഇങ്ങനെ എഴുതാം 0 മുതൽ 1 വരെ i 1 dt എന്തെന്നാൽ ഇത് 1 അമ്പിയർ ആണ് അപ്പോൾ ഈ കേസിൽ അതായതു 0 മുതൽ 1 വരെ ഇത് 1അമ്പിയർ ആണ് അതിനാൽ ആണ് ഇത് 1 dt ഇനി 1ൽ കൂടുമ്പോൾ അത് 3 t 2 ആണ് അപ്പോൾ 1 മുതൽ 2 വരെ ഇത് 3 t 2 dt ഇത് ലളിതമായ കാര്യമാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്തു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് q 8 കുളം എങ്ങനെ കിട്ടി എന്നത് മനസ്സിലായല്ലോ ഞാൻ ഇത് ഒരിക്കൽ കൂടി പറയാം എന്തെന്നാൽ നാം ആദ്യ വർഷം മുതൽ ഇത് പോലെ ആകണം 0 മുതൽ 1 വരെ ഇത് 1 ആണ് എന്നാൽ നമുക്ക് വേണ്ടത് 0 മുതൽ 2 വരെയാണ് എന്നാൽ ആദ്യം നമുക്ക് 0 മുതൽ 1 വരെ പരിഗണിക്കണം അതിനാൽ ആദ്യം t 0 മുതൽ t 1 വരെ പിന്നീട് t 1 മുതൽ t 0 മുതൽ 1 വരെ കറന്റ് 1 അമ്പിയർ ആണ് അതുകൊണ്ട് 1 dt ഇനി 1 ൽ കൂടുമ്പോൾ അതായതു 1 മുതൽ 2 വരെ അത് 3 t 2 dt ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് 1 7 ആണ് അത് 8 കുളം ആണ് ഈ ലളിതമായ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു ഉദാഹരണം അത് പേജ് നമ്പർ 19 ആണ് ഇവിടെ ഇലെക്ട്രിക്കൽ എനർജി എന്നത് ഹീറ്റ് ആയി ഈ റെസിസ്റ്റർ ൽ പരിവർത്തനം ചെയ്തിരിക്കുന്നു അതിന്റെ റേറ്റ് എന്നത് 8 കിലോ ജൂൾ പേർ മിനിറ്റ് ആണ് ചാർജ് ഒഴുകുന്ന റേറ്റ് എന്നത് 300 കുളം പേർ മിനിറ്റ് ഉം ആണ് അപ്പോൾ ഈ റെസിസ്റ്റർ ന്റെ ഇടയിൽ ഉള്ള വോൾടേജ് എത്രയാണ് ഇവിടെ ഇലെക്ട്രിക്കൽ എനർജി എന്നത് ഹീറ്റ് ആയി ഈ റെസിസ്റ്റർ ൽ പരിവർത്തനം ചെയ്തിരിക്കുന്നു അതിന്റെ റേറ്റ് എന്നത് 8 കിലോ ജൂൾ പേർ മിനിറ്റ് ആണ് പിന്നെ ചാർജ് ഒഴുകുന്ന റേറ്റ് എന്നത് 300 കുളം പേർ മിനിറ്റ് ഉം ആണ് അപ്പോൾ ഈ റെസിസ്റ്റർ ന്റെ ഇടയിൽ ഉള്ള വോൾടേജ് എത്രയാണ് ഇവിടെ നമുക്കറിയാം v p i ആണ് P എന്നത് 8 കിലോ ജൂൾ പേർ മിനിറ്റ് ആണ് അത് 8 103 അത് 1000 ജൂൾ പേർ മിനിറ്റ് ആണ് ഇനി q എന്നത് 300 കുളം പേർ മിനിറ്റ് ആണ് അത് 26 67 ജൂൾ പേർ കുളം ആണ് അതാണ് വോൾടേജ് ജൂൾ പേർ കുളം ഇത്നാം മുമ്പ് കണ്ടതാണ് അപ്പോൾ v 26 67 വോൾട് ആണ് മറ്റൊരു കാര്യം ഈ എനർജി സോഴ്സ് എന്നത് 4 ആംപിയർ എന്ന സ്ഥിരമായ കറന്റ് ഒഴുകാൻ കാരണമാകുന്നു അത് 6 സെക്കന്റ് നേരത്തേക്ക് ഈ ലാമ്പ് ൽ കൂടെ ഒഴുകുന്നു ഇനി 4 കിലോ ജൂൾ ഇവിടെ ലൈറ്റ് ന്റെ യും ഹീറ്റ് ന്റെയും രൂപത്തിൽ കൊടുക്കുകയാണേൽ ഈ ലാമ്പിനു കുറുകെ ഉള്ള വോൾടേജ് എത്രയെന്നു കണ്ടുപിടിക്കുക ഇവിടെ പറയുന്നു ഈ എനർജി സോഴ്സ് എന്നത് ഇവിടെ സ്ഥിരമായ 4ആംപിയർ കറന്റ് ഒഴുകാൻ കാരണമാകുന്നു അതും 6 സെക്കന്റ് നേരം ഇനി 4 കിലോ ജൂൾ ഇവിടെ ലൈറ്റ് ന്റെ യും ഹീറ്റ് ന്റെയും രൂപത്തിൽ കൊടുക്കുകയാണേൽ ഈ ലാമ്പിനു കുറുകെ ഉള്ള വോൾടേജ് എത്രയെന്നു കണ്ടുപിടിക്കുക ഇനി അകെ ചാർജ് q കണ്ടുപിടിക്കണം നമുക്കറിയാം i dq dt ആണ് അതിനാൽ നമുക്ക് dq i dt എന്ന് എഴുതാം അതിനാൽ നമുക്ക് എഴുതാം ഡെൽറ്റ എന്നത് i dt നമുക്കറിയാം i എന്നത് 4 ആംപിയർ ആണ് അത് സ്ഥിരമാണ് ടൈം t എന്നത് 6 സെക്കന്റ് ആണ് അതിനാൽ ഡെൽറ്റ t എന്നത് 6 സെക്കന്റ് ആണ് അപ്പോൾ 4 6 അതായതു 24 കുളം നമുക്കറിയാം വോൾടേജ് ഡ്രോപ്പ് എന്നത് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ആണ് അത് dw dq ആണ് അപ്പോൾ നമുക്ക് v ഡെൽറ്റ w ബൈ ഡെൽറ്റ eq എന്ന് എഴുതാം ഇത് 4 കിലോ ജൂൾ ആണ് അപ്പോൾ അത്4103∆q ആണ് അത് 24 കുളം അപ്പോൾ ഉത്തരം 166 67 വോൾട് ഇനി 1 t 4 മില്ലി സെക്കന്റ് ആകുമ്പോൾ എലെമെന്റിലേക്കു കൊടുക്കുന്ന പവർ p എത്രയാണെന്ന് കണ്ടെത്തുക പോസിറ്റീവ് ടെർമിനൽ ലേക്ക് ഒഴുകുന്ന കറന്റ് എന്നത് 4 cos 100πt ആംപിയർ ആണ് വോൾടേജ് എന്നത് v 3 i ആണ് ഇത് ഒരു എക്സ്പ്രെഷൻ അടുത്ത് v 3 di ബൈ dt നാം മണിക്കൂറിൽ ആണ് പവർ കണക്കു കൂട്ടുന്നത് ഇവിടെ ഇത് മില്ലി സെക്കന്റ് ൽ ആണ് പോസിറ്റീവ് ടെർമിനൽ ലേക്ക് ഒഴുകുന്ന കറന്റ് എന്നത് 4 cos 100πt ആംപിയർ ആണ് വോൾടേജ് എന്നത് v 3 i പിന്നെ v 3 didt അതിനാൽ ഉത്തരം v 3 I അതായതു 3 4 cross 100 പൈ t അപ്പോൾ 12 cos 100πt അതിനാൽ പവർ എന്നത് p v i നാം പൊതുവായി പറയേണ്ട മറ്റൊരു കാര്യം ഇത് DC സർക്യൂട് ആണ് എന്നാൽ സൈൻ കോസൈൻ ഉപയോഗിച്ചുള്ള ലളിതമായ ഉദാഹരണം ഞാൻ ഇവിടെ എടുക്കുന്നു AC പഠിക്കുമ്പോൾ ഇത്പോലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ 3 ഫേസ് ഉൾപ്പെടുത്തി പറയാം ഇവിടെ ഇതിന്റെ ഒരു ധാരണ തരിക എന്നതാണ് ഉദ്ദേശ്യം എന്നാൽ സിംഗിൾ ഫേസ് 3 ഫേസ് എന്നിവയും അവ തമ്മിലുള്ള വ്യത്യാസവും രസകരമാണ് ഇവിടെ ലക്ഷ്യം എനർജി പവർ എന്നിവ അടിസ്ഥാനമാക്കുക എന്നതാണ് അതിനാൽ p എന്നത് vi ആക്കിയാൽ നമുക്ക് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അത് 48 cos2 100 t ആണ് ഇനി t മില്ലി സെക്കന്റ് ആണ് അത് 410 ന്റെ പവർ 3 സെക്കന്റ് ആണ് ഇത് t 4 മില്ലി സെക്കന്റ് നു പകരം കൊടുക്കുക അത് 48 cos 2 പിന്നെ എന്താണോ അതിനകത്തു നമുക്ക് p 4 603 വാട്ട് എന്ന് ഉത്തരം ലഭിക്കും ഇനി v 3 di dt ഇത് 3 ആണ് ഈ എക്സ്പ്രെഷൻ 4 cos 100πt ആണ് ഇനി ഡെറിവേറ്റീവ് എടുക്കുക അത് v 1200 pi sin 100πt ആണ് അതിനാൽ p v i ഇതാണ് v യുടെ എക്സ്പ്രെഷൻ പിന്നെ ഇതാണ് i യുടെ എക്സ്പ്രെഷൻ അപ്പോൾ 4 cos 100πt യെ v വച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അത് 2400πsin 200πt ഇനി t 4 മില്ലി സെക്കന്റ് ആകുമ്പോൾ അതായതു 4 10 3 സെക്കന്റ് ആകുമ്പോൾ അപ്പോൾ p 4431 8 വാട്ട് ഇനിയും നാം കൂടുതൽ ഉദാഹരണങ്ങൾ കാണുന്നതാണ് നമുക്ക് ഇപ്പോൾ അല്പം പഠിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാകാം ഇനി സിംഗിൾ ഫേസ് ൽ നാം കറന്റ് ന്റെയും വോൾടേജ് ന്റെയും മാറ്റങ്ങൾ കാണുന്നതാണ് എന്നാൽ ആദ്യം നാം DC നോക്കുന്നതാണ് അതിന്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും നോക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതാണ് അതിൽ ട്രാൻസിയൻറ്സ് ഫസ്റ്റ് ഓർഡർ സർക്യൂട് പിന്നെ പവർ അങ്ങനെയെല്ലാം ഉണ്ടാകും തുടക്കത്തിൽ അതിന്റെ ഒരു രുചി നാം അനുഭവിക്കും